ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തി ഇവിടെ നിങ്ങളുടെ ഒരേയൊരു ജോലി പുസ്തകങ്ങളിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് തിയറി കണ്ടു ഘട്ടം ഘട്ടമായി നമ്മൾ നീങ്ങുന്നു ഇപ്പോൾ നമ്മൾ സീരീസ് R L സർക്യൂട്ട് ആണ് V ഇവിടെ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ i Im sin ω t ആണെന്ന് വിചാരിക്കും അതിനാൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് എന്തെങ്കിലും നമ്മൾ അനുമാനിക്കണം അതിനാൽ നിങ്ങൾ i Im sin t എന്ന് കരുതുകയാണെങ്കിൽ I Im √ 2 rms മൂല്യം കൂടാതെ റഫറൻസ് ആംഗിൾ 0 ആയിരിക്കും കാരണം ഇത് ω t 0 ആണ് അതിനാൽ ഇത് Im √ 2 0 o അതിനാൽ ഇതാണ് rms മൂല്യം എന്തായാലും അടുത്തത് ഇൻസ്റ്റന്റന്റ്സ് വോൾടേജ് vR VL v ആണ് അതിനാൽ vR iR ആണ്VL Ldi dt ആണ് അതിനാൽ v i R L di dt ഇപ്പോൾ i Im sin ω t അതിനാൽ അത് R Im sin ω t ω L Im cos ω t v ആയിരിക്കും പിന്നെ നിങ്ങൾ ചെയ്യുന്നത് Im പൊതുവായി എടുക്കുക എന്നതാണ് അതിനാൽ Im ഇവിടെയുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ R ആണ് ഇത് നിങ്ങളുടെ ωL ആണ് അതിനാൽ ഇത് നിങ്ങൾ നിർമ്മിച്ച RIm ആണ് ഇത് ωLIm ആണ് അതിനാൽ ഇത് √ കൊണ്ട് ഹരികുക അതിനാൽ ഈ ഈക്വാഷൻ ന്റെ ഇരുവശങ്ങളിലും നിങ്ങൾ √ അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ നിങ്ങൾക്ക് കിട്ടുന്നത് v Im √ Vm Im അതിനാൽ നമ്മൾ Z Vm Im എഴുതുമ്പോൾ അടിസ്ഥാനപരമായി Z ഞാൻ അത് മായ്ക്കട്ടെ നിങ്ങൾ ഡയഗ്രം നോക്കുകയാണെങ്കിൽ tan θ L ω R കാരണം Im വെട്ടി പോകും അതിനർത്ഥം θ tan 1 ആണ് ഈ സാഹചര്യത്തിൽ നമ്മൾ എടുത്തതാണ് i Imsin ω t അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഫാസറിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫേസർ ഡയഗ്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ i Im √ 2 എന്ന് എഴുതുന്നു അത് rms മൂല്യം ആണ് അതിന്റെ ആംഗിൾ 0o ആയിരിക്കും അതിനാൽ ഇത് നിങ്ങളുടെ rms മൂല്യമാണ് അതിനാൽ ഇത് I ആംഗിൾ 0 ആയി നിർവചിക്കാം I ഒരു rms മൂല്യം ആണ് അതുകൊണ്ടാണ് I റഫറൻസായി എടുക്കുന്നത് അതിനാൽ ഇതാണ് നിങ്ങളുടെ റഫറൻസ് ഇപ്പോൾ ഞാൻ അത് മായ്ക്കട്ടെ അടുത്തത് V അങ്ങനെ V Vm sin ω t അതിനാൽ യഥാർത്ഥത്തിൽ v Vm sin അതിനാൽ ഇത് ഫേസർ ഡയഗ്രാമിൽ എഴുതാം നിങ്ങൾ ഫേസർ ഡയഗ്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ rms മൂല്യം Vm √ 2 എടുക്കുന്നു ഇത് ഒരു ആംഗിൾ θ ആയി എടുക്കാം അതിനാൽ ഇത് V ആംഗിൾ θ എന്ന് എഴുതാം V എന്നത് rms മൂല്യമാണ് v Vm √ 2 അതുപോലെ I Im √ 2 rms മൂല്യം അതിനാൽ V എന്നത് rms മൂല്യമാണ് അതിനാൽ ഇവിടെ ഒരു ആംഗിൾ θ ആണ് θ പോസിറ്റീവ് ആണ് അതിനാൽ ഈ V അവിടെയുണ്ട് ഈ ആംഗിൾ θ ആണ് ഇതിനർത്ഥം കറന്റ് I വോൾടേജ് V ൽ നിന്ന് θ ആംഗിൾ ൽ ലാഗ് ചെയ്യുന്നു കൂടാതെ മറ്റൊരു കാര്യം ഞാൻ അത് മായ്ക്കട്ടെ നമുക്ക് ഡയഗ്രാമിലേക്ക് പോകാം മറ്റൊരു കാര്യം ഈ ഡയഗ്രാമിൽ vR i R ഇത് റെസിസ്റ്റൻസ് ണ് ഉടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് നമുക്ക് ഇത് IR ആയി ഉണ്ടാക്കാം ഇത് ഒരു ആർഎംഎസ് മൂല്യമാണെങ്കിൽ തീർച്ചയായും ഇൻസ്റ്റന്റന്റ്സ് പൊളാരിറ്റി എന്നാൽ XL j Lω അതായത് നിങ്ങളുടെ വോൾട്ടേജ് ഡ്രോപ്പ് VL j I L ω അതായത് IXL അതിനാൽ ഇത് VL j I L ω ആണ് അതിനാൽ പൂർണ്ണമായും ഇൻഡക്റ്റീവ് സർക്യൂട്ടിന് ഇത് j L ω ആണ് അതായത് വോൾട്ടേജിൽ നിന്ന് കറന്റ് 90o ലാഗ് ചെയ്യുന്നു തികച്ചും ഇൻഡക്റ്റീവ് സർക്യൂട്ടിനായി അത് അടിസ്ഥാനപരമായി ഇമേജിനറി ആക്സിസ് ൽ ആണ് അതിനാൽ ഇത് നിങ്ങളുടെ R ആണ് ഇത് j L ω ആണ് അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനാൽ vR IR VL j I XL j എന്നാൽ ആംഗിൾ 90o എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഇത് പോലെ എടുത്താൽ j I XL I XL j എന്നാൽ ആംഗിൾ 90o കാരണം cos 90o j sin 90o അതിനാൽ cos 90o 0 sin 90o 1 ഇത് j I XL ആയി മാറും ഇതിന്റെ ഫലമാണ് v ഇപ്പോൾ നമുക്ക് ഒരിക്കൽക്കൂടി ഡയഗ്രാമിലേക്ക് മടങ്ങിവരാം ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് Z R j L ω ആണ് കാരണം ഇതിൽ റെസിസ്റ്റൻസ് ആയിരിക്കും ഇതാണ് Z അതിന്റെ മാഗ്നിറ്റുഡ് ആണ് നിങ്ങൾ പ്രശ്നം പരിഹരിക്കുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ ഇതിനർത്ഥം നിങ്ങൾ നിലവിലെ കണക്ക് ചെയ്യുമ്പോൾ ഈ v Vm sin Z v ആംഗിൾ θ R j L ω അതിനാൽ ആ സാഹചര്യത്തിൽ ഇതാണ് i ഇത് ഫാസർ അളവാണ് അതിനാൽ ഇത് എന്റെ i ആണ് അതിനാൽ ഇത് നിങ്ങളുടെ V ആംഗിൾ θ Z ആംഗിൾ θ ആണ് Z √ V Z ആംഗിൾ 0o അതായത് ഏത് കറന്റ് ലഭിച്ചാലും i Im sin ω t എന്ന് കരുതുക നിങ്ങളുടെ i ആംഗിൾ 0o അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇതും V Z i ആംഗിൾ 0o ആണ് കാരണം ഞാൻ റിവേഴ്സ് കണക്കുകൂട്ടൽ കാണിച്ചുതരുന്നു ഞങ്ങൾ സർക്യൂട്ട് പ്രശ്നം പരിഹരിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇത് കാണും ഞാൻ പുറകിൽ നിന്നാണ് വന്നത് അതിനാൽ ഇത് i ആംഗിൾ 0o ആണ് I Im √ 2 RMS മൂല്യം ആംഗിൾ 0o എന്നിവ ഇവിടെ വരുന്നതുകൊണ്ട് ഞാൻ ഫേസറിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അല്പം മനസ്സിലാക്കൽ ആവശ്യമാണ് അങ്ങനെ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെയാണ് നിങ്ങളുടെ Z R j ω L എന്ന് വിളിക്കുന്നത് ഇതാണ് നിങ്ങളുടെ മാഗ്നിറ്റുഡ് Im sin ω t എന്ന് എഴുതാം ഇത് നിങ്ങൾ അതിനെ sin A cos B cos A sin B എന്ന രീതിയിൽ ആക്കി ഗണിക്കാം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അതിനാൽ ഞങ്ങൾ നേരിട്ട് ഇടുന്നു നിങ്ങൾ ഇട്ടു അതിനെ ഇന്റഗ്രേറ്റ്

അതിനാൽ ഇത് യഥാർത്ഥത്തിൽ θ യഥാർത്ഥത്തിൽ വോൾട്ടേജും കറന്റും തമ്മിലുള്ള ആംഗിൾ2 ആയിരിക്കും പക്ഷേ പൊതുവേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ rms മൂല്യം ഉപയോഗിക്കും അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ ഇത് ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം ഇതാണ് ഇതാണ് നിങ്ങളുടെ പവർ നിങ്ങൾ P V I പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പ്ലോട്ടിംഗ് ഇതുപോലെയായിരിക്കും ഇപ്പോൾ ഇത് പ്രകടിപ്പിക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം ഇതാണ് അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും അതിനാൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് 0 ആയി മാറുമെന്ന് നിങ്ങൾ കാണും അതിനാൽ ഇതാണ് ആശയം അടുത്തതായി നിങ്ങളുടെ സീരീസ് R C സർക്യൂട്ട് ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ R i യും നിങ്ങൾക്കും അറിയാം i c dv dt അതിൽ നിന്ന് നിങ്ങൾക്ക് VC R i 1 C ഇന്റഗ്രേറ്റ് Im cos ω t v ആകും അതിനാൽ മുമ്പത്തെപ്പോലെ ഇവിടെ നിങ്ങൾ Im പൊതുവായി എടുക്കുന്നു ഇവിടെ അത് ωcIm കൊണ്ട് ഗുണിക്കുന്നു ഇവിടെയും Im കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും ഇത് നിങ്ങളുടെ sin ω t ആണ് നിങ്ങൾ ഈ ഡയഗ്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ ബൈസ് ഇവിടെ Im വെട്ടി പോകും അതിനാൽ cos θ R √ അതിനാൽ ഇതിനർത്ഥം ഇത് നിങ്ങളുടെ cos θ മാറ്റിസ്ഥാപിക്കാൻ കഴിയും എന്നാണ് ഇത് sin θ പകരം വയ്ക്കാം അതിനാൽ അതനുസരിച്ച് ഇത് ഇവിടെ cos θ ഇവിടെ ഇതാണ് നിങ്ങളുടെ sin θ ഇവിടെ നമ്മൾ വീണ്ടും Im √ കൊണ്ട് ഗുണിക്കും കാരണം ഇത് ക്രോസ് ഗുണനമാണ് അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇൻഡക്റ്റീവ് സർക്യൂട്ട് അങ്ങനെ നമുക്ക് Z √ പക്ഷേ അടയാളം അവിടെയുണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ ഇത് tan 1 അതിനാൽ θ നെഗറ്റീവ് ആയിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നെ അൽപ്പം മുകളിലേക്ക് നീക്കാൻ അനുവദിക്കു ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ വോൾട്ടേജ് കറന്റിൽ നിന്ന് ഒരു ആംഗിൾ θ ലാഗ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ കറന്റ് ഞാൻ ഈ വോൾട്ടേജിനെ ഒരു ആംഗിൾ θ ലീഡ് ചെയ്യുന്നു കാരണം ഈ ആംഗിൾ θ ആണ് അതിനാൽ VC j I Xc എന്നത് Xc 1 ω c ആണ് അതിനാൽ I 1 ω c ഇത് എന്റെ വോൾട്ടേജ് V അതിനാൽ V V VC I R j യഥാർത്ഥത്തിൽ ഇത് എന്റെ VR ആണ് തുടർന്ന് VC VC I j 1 ω c കാരണം ഇത് നിങ്ങളുടെ j I 1 ω c ആണ് അതിനാൽ R j ω c അതായത് RC സർക്യൂട്ടിനുള്ള ഇമ്പിഡൻസ് R j ω c അതിനർത്ഥം ഇത് I Z ആണ് അതിനാൽ സർക്യൂട്ടിന്റെ ഇമ്പിഡൻസ് Z R j 1 ω c അതിനാൽ പൊതുവെ സംഭവിക്കുന്നത് നമ്മൾ എഴുതുമ്പോൾ R j Xc എന്ന് എഴുതും ആ സാഹചര്യത്തിൽ നിങ്ങൾ R j Xc എന്ന് എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുക നിങ്ങൾ Xc മൂല്യം നെഗറ്റീവ് ആയി എടുക്കണം നിങ്ങൾ ഈ രീതിയിൽ ചെയ്യില്ല നിങ്ങൾ ചെയ്യുന്നത് ഞാൻ അത് മായ്ക്കട്ടെ നിങ്ങൾ R j Xc എന്ന് എഴുതും അപ്പോൾ നിങ്ങൾ Xc 1 ω c എടുക്കും അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് 1 ω c അതിനാൽ ഇത് R j Xc ആണ് ഇൻഡക്റ്റീവ് കേസിൽ ഇത് R j XL ആണ് കപ്പാസിറ്റീവ് കേസിന് ഇത് R j Xc Xc 1 ω c ആണ്

അതിനാൽ പവർ2 V I cos θ V എന്നത് വോൾട്ടേജിന്റെ rms മൂല്യവും I എന്നത് കറന്റിന്റെ rms മൂല്യവുമാണ് അതിനാൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്കായി എഴുതുന്നു V Vm √ 2 കൂടാതെ I Im √ 2 കറന്റിന്റെ RMS മൂല്യം പവർ വോൾട്ടേജ് കറന്റ് എന്നിവയ്ക്കായി ഡയഗ്രം ഇവിടെ കാണിച്ചിരിക്കുന്നു ഈ p എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്ലോട്ട് ചെയ്യുന്നത് ഇത് ഡാഷ് ലൈനാണ് ഇത് പവർ ഭാഗമാണ് എന്നൊരു തോന്നൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ നൽകുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു സീരീസ് R C സർക്യൂട്ട് ന് ഇടാം ഇതിലൂടെ ഒഴുകുന്ന കറന്റ് I ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം വോൾട്ടേജും കറന്റും ഞാൻ നിങ്ങളോട് പറഞ്ഞു എസി സർക്യൂട്ട് ഫാസർ കറങ്ങുന്നു ഇത് നിങ്ങളുടെ സർക്യൂട്ട് ഡയഗ്രം നെറ്റ്വർക്ക് അനുസരിച്ചായിരിക്കാം നിങ്ങൾ സ്വീകരിച്ച തരം ഇംപെഡൻസ് ആയിരിക്കാം അതിനാൽ ഇത് എല്ലാ നാല് ക്വാഡ്രന്റിലും ആയിരിക്കാം അത് എവിടെയും ആകാം കാരണം ഇത് കറങ്ങുന്ന വെക്റ്ററാണ് അതിനാൽ വോൾട്ടേജിന്റെയും വൈദ്യുതധാരയുടെയും ആംഗിളും പക്ഷേ നിങ്ങൾ ഇമ്പിഡൻസ് ൽ എവിടെയെങ്കിലും ആയിരിക്കണം ഇപ്പോൾ സർക്യൂട്ടിനെ ആശ്രയിച്ച് ഇൻഡക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് ടൈപ്പ് ഇൻഡക്റ്റീവ് ടൈപ്പ് ആയിരിക്കും

അതിനാൽ അടുത്തത് സീരീസ് R L C സർക്യൂട്ട് കാണിക്കുന്നു പക്ഷേ അത് ഇല്ലെങ്കിലും അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനാൽ ഇത് ഒരു എസി അളവാണ് അതിനാൽ നിങ്ങൾ i പൊതുവായതാണെങ്കിൽ എല്ലായിടത്തും ഞാൻ അമ്പടയാളം എടുക്കില്ല അതിനാൽ ഇതൊന്നുമല്ല ഇത് നിങ്ങളുടെ Z ബാർ ആണ് ഇതൊരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിR ഇത് ആംഗിൾ ആയിരിക്കും ഇപ്പോൾ VL VC യേക്കാൾ വലുതാണെങ്കിൽ VC യേക്കാൾ VL വലുതാണെങ്കിൽ അല്ലെങ്കിൽ XL XC നേക്കാൾ വലുതാണെങ്കിൽ സർക്യൂട്ട് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് പോലെ പെരുമാറും എന്നാണ് XL എന്നത് XC നേക്കാൾ വലുതാണെങ്കിൽ അതാണ് നിങ്ങളുടെ I അതിനാൽ നിങ്ങൾ ഈ R I j ഗുണിച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ഇതാണ് എന്നാൽ അതേ സമയം ഇത് VC ആണെങ്കിൽ j ഇവിടെ ഇത് VL ആണ് പക്ഷേ VL VC എടുക്കരുത് അത് ആകും അത് ചെയ്യരുത് ഇത് VL VC എടുത്തു അതിനാൽ ഇവിടെ ഈ വശം നെഗറ്റീവ് വശമാണ് അതിനാലാണ് നമ്മൾ ഇത് എടുത്തത് പക്ഷേ നിങ്ങൾ ഈ വ്യത്യാസം എടുക്കുമ്പോൾ ദയവായി ആ സമയത്ത് അത് ചെയ്യരുത് നിങ്ങൾ j R അതിനാൽ ω L 0 ൽ കൂടുതലാണ് അത് പോസിറ്റീവ് ആണ് അതിനർത്ഥം എന്റെ θ പോസിറ്റീവ് ആയിരിക്കും കാരണം ഇത് യഥാർത്ഥത്തിൽ θ ആണ് അതിനാൽ θ പോസിറ്റീവ് ആയിരിക്കും അതിനാൽ ഫേസർ ഡയഗ്രം ഇതുപോലെയായിരിക്കും അതിനാൽ ഇത് നിങ്ങളുടെ ഫലമാണ് കാരണം XC നേക്കാൾ XL വലുത് അയാൾ VC യെക്കാൾ VL വലുതാണ് അതിനാൽ ഇത് VL VC യുടെ ഫലമായ ഭാഗമാണ് ഇത് θ ആണ് അതിനർത്ഥം ഈ സർക്യൂട്ട് ഇൻഡക്റ്റീവ് ടൈപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അതുപോലെ VL VC യിൽ കുറവാണെങ്കിൽ നിങ്ങളുടെ XL XC നേക്കാൾ കുറവാണ് നിങ്ങളുടെ VL VC യേക്കാൾ കുറവാണെങ്കിൽ അതിനർത്ഥം എന്റെ XL XC യേക്കാൾ കുറവാണ് നേരെ വിപരീതമാണ് അതിനാൽ ഞാൻ വിശദീകരിക്കുന്ന അതേ കാര്യം നിങ്ങൾക്ക് നൽകുന്നില്ല ആ സാഹചര്യത്തിൽ θ നെഗറ്റീവ് ആയിരിക്കും അതിനാൽ ഇത് എന്റെ ആംഗിൾ θ അതിനാൽ ഇത് ഇപ്പോൾ VC VL ആയിരിക്കും അതിനാൽ ഇത് കാണിക്കുന്നതിനുള്ള അടയാളം കൊണ്ട് ആശയക്കുഴപ്പത്തിലാകരുത് എന്നാൽ നിങ്ങൾ ഈ വ്യത്യാസം എടുക്കുമ്പോൾ ഇത് അവഗണിക്കരുത് നിങ്ങളുടെ VC VL ആയിരിക്കും j I അതിനാൽ നിങ്ങൾ അത് ഇവിടെ വെച്ചില്ലെങ്കിൽ അത് പ്രശ്നമല്ല അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് VC VL ആയിരിക്കും കാരണം നിങ്ങളുടെ VL നേക്കാൾ VC വലുതാണ് അതിനാൽ ഈ വശത്തേക്ക് വരുന്നു അതിനാൽ ഇത് എന്റെ θ ആണ് അതിനാൽ ഈ സമയം θ നെഗറ്റീവ് ആണ് അതായത് സർക്യൂട്ട് പെരുമാറ്റം ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് പോലെയാണ് കാരണം ഈ സാഹചര്യത്തിൽ Xc നേക്കാൾ XL കുറവാണ് എന്നത് നിങ്ങളുടെ L ω ω c എന്നത് 0 ൽ കുറവാണ് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ 1 ω c എന്നത് L ω നേക്കാൾ വലുതാണ് അതായത് എന്റെ Xc XL നേക്കാൾ വലുതാണ് അതിനാൽ Xc എന്നത് XL നേക്കാൾ വലുതാണ് അല്ലെങ്കിൽ XL നെ Xc നേക്കാൾ കുറവാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു അതിനാൽ അതുകൊണ്ടാണ് സർക്യൂട്ട് പെരുമാറ്റം ഇത്തരത്തിലുള്ളത് ഇത് നിങ്ങളുടെ ബാർ ആയിരിക്കണം ഇത് ഒരു ഫേസർ അല്ല അതിനാൽ Z ഒരു ഫേസർ അളവല്ല കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണ് അതിനാൽ എന്തായാലും VL VC യേക്കാൾ കുറവാണ് അതിനാൽ സർക്യൂട്ട് ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ട് പോലെയാകും അതിനാൽ ഈ ഉദാഹരണം എടുക്കുക v t 100 sin 40 t അതായത് 100 sin ω t അതായത് ω 40 റേഡിയൻസ് സെക്കൻഡിൽ കണ്ടെത്തണം നിങ്ങൾ ഫേസർ ഡയഗ്രം കാണിക്കേണ്ടതുണ്ട് അതിനാൽ ഇതാണ് സർക്യൂട്ട് നിങ്ങൾ ഒരു ഇൻസ്റ്റന്റന്റ്സ് പൊളാരിറ്റി ഈ അളവുകളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട് വളരെയധികം നന്ദി